ഇതുവരെ നമ്മൾ കണ്ടത് നിങ്ങൾക്ക് ഒരു നോൺലീനിയർ സർക്യൂട്ട് ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു നിശ്ചിത ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇതിനകം കണക്കാക്കിയിരിക്കുമ്പോൾ ഇൻപുട്ടിന്റെ മൂല്യങ്ങൾ മാറുമ്പോഴോ അല്ലെങ്കിൽ സർക്യൂട്ടിലേക്കുള്ള ഉത്തേജനത്തിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോഴോ നിങ്ങൾക്ക് എല്ലാ അളവുകളെയും പ്രവർത്തന പോയിന്റിന് മുകളിലുള്ള വർദ്ധനവായി പ്രതിനിധീകരിക്കാം നിങ്ങൾ ഇത് ചെയ്യുകയും രേഖീയമല്ലാത്ത ടെയ്ലർ ശ്രേണിയിലെ ഉയർന്ന ഓർഡർ നിബന്ധനകൾ അവഗണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇൻക്രിമെന്റൽ അളവുകൾ തമ്മിലുള്ള ബന്ധം മാത്രം ഇത് ഓപ്പറേറ്റിംഗ് പോയിന്റിന് ബാധകമല്ല എന്നാൽ വർദ്ധിച്ചുവരുന്ന അളവുകൾക്ക് മാത്രം ബന്ധം രേഖീയമായിരിക്കും ഉദാഹരണത്തിന് ഈ പ്രത്യേക സർക്യൂട്ടിന് ഡയോഡ് കറന്റ് ഡയോഡ് വോൾട്ടേജിന്റെ ഒരു നോൺ ലീനിയറിറ്റി ഫംഗ്ഷൻ ആണെന്ന് കരുതിയാൽ ഇൻക്രിമെന്റൽ വോൾട്ടേജ് VS ആണ് VD എന്നിവയ്ക്ക് ഈ ബന്ധമുണ്ട് ഇപ്പോൾ ഈ VD ആണ് വേരിയബിൾ VS1 ബൈ f at VD0 ഡിവൈഡഡ് ബൈ R പ്ലസ് 1 ബൈ f at VD0 കൊണ്ട് ഹരിച്ചാൽ ഇൻക്രിമെന്റൽ ഡയോഡ് വോൾട്ടേജ് ലഭിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ എഴുതുന്നത് ഈ ഫോം ഒരു വോൾട്ടേജ് ഡിവൈഡറുമായി വളരെ സാമ്യമുള്ളതാണ് ഡയോഡിലുടനീളമുള്ള വോൾട്ടേജ് എന്നത് സോഴ്സ് വോൾട്ടജിനെ ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചതിനെ റെസിസ്റ്റൻസിന്റെയും മറ്റൊരു സംഖ്യയുടെയും തുക കൊണ്ട് ഹരിക്കുന്നതാണ് ഈ സംഖ്യയ്ക്ക് പ്രതിരോധത്തിന്റെ അളവുകളും ഉണ്ടെന്നത് വളരെ വ്യക്തമാണ് കാരണം f ഒരു ഡയോഡ് കറന്റ് ആണ് ഇപ്പോൾ f എന്നത് ചാലകതയുടെ അളവുകളുള്ള VD യെ സംബന്ധിച്ച ID യുടെ ഡെറിവേറ്റീവല്ലാതെ മറ്റൊന്നുമല്ല ഇതിന്റെ റേസിപ്രോക്കൽ ഒരു റെസിസ്റ്റൻസാണ് അതിനാൽ അടിസ്ഥാനപരമായി ഈ സർക്യൂട്ടിൽ നിന്ന് വർദ്ധിച്ച അളവുകൾ കണ്ടെത്താനാകുമെന്ന് തോന്നുന്നു ഞാൻ ഇത് ഉരുത്തിരിഞ്ഞതല്ല ഞാൻ ഈ സർക്യൂട്ട് ഇറക്കുകയാണ് ഉദാഹരണത്തിന് എനിക്ക് ഒരു ലീനിയർ സർക്യൂട്ട് ഉണ്ടെങ്കിൽ അവിടെ ഇൻപുട്ട് ഉറവിടം VS ആണെങ്കിൽ ഒരു റെസിസ്റ്റീവ് ഡിവൈഡർ ഉണ്ടെങ്കിൽ ഈ പ്രതിരോധം R ഇവിടെയുള്ളതിന് തുല്യമാണ് കൂടാതെ ഈ പ്രതിരോധം ഇവിടെ പ്രവർത്തന പോയിന്റിൽ കണക്കാക്കിയ ഡയോഡ് സ്വഭാവത്തിന്റെ 1 by f ആണ് നിങ്ങൾക്ക് ഒരേ പരിഹാരം തന്നെ ലഭിക്കും കാരണം ഈ രണ്ട് ടെർമിനലുകൾക്കിടയിൽ നിങ്ങൾ കാണുന്ന വോൾട്ടേജ് റെസിസ്റ്റീവ് ഡിവൈഡർ ഫോർമുലയിൽ നിന്ന് നിങ്ങൾക്കറിയാവുന്നതിന് തുല്യമാണ് ഇത് യാദൃശ്ചികമല്ല പ്രത്യേക സിമ്പിൾ സർക്യൂട്ടിന് ഇത് സംഭവിക്കുമെന്നല്ല ഓരോ സർക്യൂട്ടിലും രേഖീയമല്ലാത്ത മൂലകത്തെ ചില ലീനിയർ തത്തുല്യമായത് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ ഇത് മാറുന്നു ഇപ്പോൾ ഇത് വളരെ ആശ്ചര്യകരമല്ല ഞങ്ങൾ രേഖീയമല്ലാത്ത സ്വഭാവത്തെ ഓപ്പറേറ്റിംഗ് പോയിന്റിന് ചുറ്റുമുള്ള ഒരു നേർരേഖ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു അതിനാൽ രേഖീയമല്ലാത്ത മൂലകത്തെ ഒരു ലീനിയർ മൂലകം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം ഇത് എളുപ്പമാണ് അതിനാൽ ടെയ്ലർ സീരീസിലെ നോൺ ലീനിയാരിറ്റി വിപുലീകരിക്കുകയും ഉയർന്ന ഓർഡർ ടേമുകൾ അവഗണിക്കുകയും ചെയ്യുന്ന ഈ ബിസിനസ്സ് എളുപ്പമാണ് ഇത് ഇപ്പോഴും എല്ലാ സമയത്തും സമവാക്യം സജ്ജീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല തുടർന്ന് ഉയർന്ന ഓർഡർ ടേമുകൾ അവഗണിക്കുന്ന ഈ ബിസിനസ്സിൽ ഏർപ്പെടുന്നു ഇൻക്രിമെന്റൽ അളവുകൾക്കായുള്ള പരിഹാരത്തിൽ എത്തിച്ചേരുന്നതിനും ഓരോ മൂലകത്തിനും തുല്യമായ ഇൻക്രിമെന്റൽ പരിഗണിക്കുന്നതിലൂടെയും ഞങ്ങൾ കൂടുതൽ നേരായ മാർഗം ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ സമവാക്യം കാണിച്ചതിന്റെ കാരണം അത് ഒരു പൊതു രീതിയാണെന്ന് കാണിക്കാനാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എല്ലാ നോൺ ലീനിയർ എലമെന്റും ഒരു ലീനിയർ തത്തുല്യം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാമെന്നും ഫലമായുണ്ടാകുന്ന സമവാക്യങ്ങളും നിങ്ങൾ ടെയ്ലർ സീരീസിലെ എല്ലാ നോൺലീനിയാരിറ്റികളും വിപുലീകരിക്കുകയും ഉയർന്ന ഓർഡർ ടേമുകൾ അവഗണിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് തുല്യമായിരിക്കും അതിനാൽ മുഴുവൻ സർക്യൂട്ടും പരിഗണിക്കുന്നതിനുപകരം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരൊറ്റ ഘടകം മാത്രം പരിഗണിക്കുക എന്നതാണ് അതിനാൽ നമുക്ക് ഒരു വോൾട്ടേജ് V ഉണ്ട് ഒരു കറന്റ് I ഉണ്ട് കൂടാതെ ഞാൻ V യുമായി രേഖീയമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം വഴിയിൽ നമുക്ക് വൈദ്യുതധാരയുടെ ചില പ്രവർത്തനമായി വോൾട്ടേജ് പ്രകടിപ്പിക്കാനും കഴിയും അതിനാൽ ഞാൻ മിക്കപ്പോഴും ഈ ഫോർമുലേഷൻ ഉപയോഗിക്കുന്നു പക്ഷേ ഇത് തികച്ചും സാധുതയുള്ളതാണ് ഇവ ഒഹ്മ്സ് ലോ Ohms law തുല്യമായ പ്രസ്താവനകൾ പോലെയാണ് നിങ്ങൾക്ക് I VG അല്ലെങ്കിൽ V IR എന്ന് എഴുതാം അതിനാൽ ഇത് ലീനിയർ മൂലകത്തിനും ഇത് ഒരു നോൺലീനിയർ മൂലകത്തിനും വേണ്ടിയുള്ളതാണ് ഇനി നോൺലീനിയർ എലമെന്റ് ചില ഓപ്പറേറ്റിങ് പോയിന്റ് അവസ്ഥയിലാണെന്ന് പറയാം നമുക്ക് V0 ഉണ്ട് അതിലൂടെ ഒരു കറന്റ് I0 ഒഴുകുന്നു വ്യക്തമായും I0 f ഈ രണ്ട് അളവുകളും ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു നമുക്ക് ഇതിനെ പ്രവർത്തന പോയിന്റ് എന്ന് വിളിക്കാം ഇപ്പോൾ V യുടെ മറ്റേതെങ്കിലും മൂല്യം പ്രവർത്തന പോയിന്റും ഒരു ഇൻക്രിമെന്റും ആയി കണക്കാക്കാം കൂടാതെ I യുടെ മറ്റേതെങ്കിലും മൂല്യം പ്രവർത്തന പോയിന്റും ഒരു ഇൻക്രിമെന്റും ആയി കണക്കാക്കാം അതിനാൽ ഇപ്പോൾ ഇത് V0 v ആണ് ഇത് I0 i ആണ് കൂടാതെ ഈ അളവുകൾ മൂലകം ചുമത്തിയിരിക്കുന്ന നിയന്ത്രണത്തെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് അത് രേഖീയമല്ലാത്ത സ്വഭാവമാണ് ഇപ്പോൾ ഞാൻ ഇത് ഓപ്പറേറ്റിംഗ് പോയിന്റിനെക്കുറിച്ചുള്ള ഒരു ടെയ്ലർ സീരീസിൽ വിപുലീകരിക്കുന്നു അതിനാൽ എനിക്ക് f f ലഭിക്കുന്നത് V0 തവണ v പ്ലസ് ഉയർന്ന ഓർഡർ ടേമുകളിൽ കണക്കാക്കുന്നു വീണ്ടും ഈ ഡീവിയേഷൻ v ഇൻക്രിമെന്റ് v ആവശ്യത്തിന് ചെറുതാണെങ്കിൽ എനിക്ക് എല്ലാ ഉയർന്ന ഓർഡർ ടേമുകളും അവഗണിക്കാം കൂടാതെ I0 f ആണെന്ന് എനിക്കറിയാം അതിനാൽ ഇത് അതിനൊപ്പം പോകുന്നു അതിനാൽ ഇൻക്രിമെന്റൽ കറന്റ് i എന്നത് പ്രവർത്തന പോയിന്റിലെ സ്വഭാവത്തിന്റെ ഡെറിവേറ്റീവ് അല്ലാതെ മറ്റൊന്നുമല്ല ഇൻക്രിമെന്റൽ വോൾട്ടേജ് v അതിനാൽ ഇൻക്രിമെന്റുകൾ കണക്കിലെടുക്കുമ്പോൾ കറന്റ് വോൾട്ടേജിന് ആനുപാതികമാണ് അതായത് അത് ഒരു റെസിസ്റ്റർ പോലെ പ്രവർത്തിക്കുന്നു അതിനാൽ ഇത് ഇൻക്രിമെന്റുകൾക്ക് മാത്രമുള്ളതാണ് ഇൻക്രിമെന്റൽ വോൾട്ടേജ് v ഇൻക്രിമെന്റൽ കറന്റ് i എന്നിവ ഈ എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഇവിടെ പ്രവർത്തന പോയിന്റിനെ ആശ്രയിച്ചുള്ള ചിലത് ഉണ്ട് അത് പ്രതിരോധത്തിന്റെ മൂല്യമാണ് അതിനാൽ ചെറിയക്ഷരമായ r ഉപയോഗിച്ച് ഞാൻ പ്രതിരോധത്തെ സൂചിപ്പിക്കട്ടെ ഇത് ഇൻക്രിമെന്റൽ റെസിസ്റ്റൻസ് ആണെന്നും അത് v0 ൽ ആ ചരിവിന്റെ റെസിപ്രോക്കലിന് തുല്യമാകുമെന്നും സൂചിപ്പിക്കാൻ മാത്രമാണിത് ഇപ്പോൾ ഇത് ചരിവിന്റെ റെസിപ്രോക്കലാണ് കാരണം ഫംഗ്ഷൻ വോൾട്ടേജിന്റെ ഫംഗ്ഷനായി നിങ്ങൾക്ക് കറന്റ് നൽകുന്നു അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ വർദ്ധിത ചാലകത g f ആണ് ഓരോ ടു ടെർമിനൽ നോൺ ലീനിയർ എലമെന്റും ഇൻക്രിമെന്റ് ചെറുതാണെങ്കിൽ ഇൻക്രിമെന്റൽ അളവുകൾക്കുള്ള ഒരു റെസിസ്റ്ററാണ് ഈ തുല്യത ഇൻക്രിമെന്റുകൾക്ക് മാത്രമാണെന്ന് ഓർമ്മിക്കേണ്ടത് വളരെ പ്രധാനമാണ് റെസിസ്റ്ററിന്റെ മൂല്യം പ്രവർത്തന പോയിന്റിനെ ആശ്രയിച്ചിരിക്കുന്നു ഇതിനെ ഇൻക്രിമെന്റൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു ഇത് ചെറിയ ഇൻക്രിമെന്റുകൾക്ക് മാത്രം സാധുതയുള്ളതിനാൽ ഇതിനെ ചെറിയ സിഗ്നൽ ഇൻക്രിമെന്റൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ അതുപോലെ അളവ് g എന്ന് വിളിക്കുന്നു ഇത് f ആണ് ഇത് ഇൻക്രിമെന്റൽ കണ്ടക്ടൻസ് എന്നറിയപ്പെടുന്നു രേഖീയമല്ലാത്തതിനെ ഇങ്ങനെ പ്രതിനിധീകരിച്ചിരുന്നെങ്കിൽ ഒരു വൈദ്യുതധാരയുടെ ഒരു ഫംഗ്ഷൻ എന്ന നിലയിൽ വോൾട്ടേജ് അപ്പോൾ പ്രവർത്തന പോയിന്റിൽ കണക്കാക്കിയിരിക്കുന്ന h ന്റെ ചരിവായിരിക്കും ഇൻക്രിമെന്റൽ റെസിസ്റ്റൻസ് ഇത് പ്രവർത്തന പോയിന്റ് എന്തുമാകട്ടെ ഇൻക്രിമെന്റൽ ചാലകത ഇതിന്റെ റേസിപ്രോക്കൽ ആയിരിക്കും അതിനാൽ ഓരോ നോൺലീനിയർ എലമെന്റും ഒരു ലീനിയർ എലമെന്റ് കൊണ്ട് ഏകദേശം കണക്കാക്കാം എന്തുകൊണ്ടാണ് ഈ രീതി എളുപ്പമുള്ളതെന്ന് ഇപ്പോൾ നിങ്ങൾ കാണുന്നു യഥാർത്ഥ സർക്യൂട്ടുകളുടെ രേഖീയമല്ലാത്ത സമവാക്യം പോലും ഞങ്ങൾ എഴുതേണ്ടതില്ല ഓപ്പറേറ്റിംഗ് പോയിന്റ് കണക്കാക്കാൻ നിങ്ങൾ ഇത് ചെയ്യണം എന്നാൽ ഇൻക്രിമെന്റുകൾക്കായി ആ പോയിന്റ് മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ഘടകവും നോക്കുകയും അതിന്റെ ഇൻക്രിമെന്റൽ തുല്യമായത് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിനുള്ള പരിഹാരം കണക്കാക്കുക എന്നതായിരുന്നു എന്റെ യഥാർത്ഥ പ്രശ്നം ഇവിടെ ഈ V0 വരുന്നത് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നിന്നാണ് അതായത് V0 നുള്ള പരിഹാരം ഞാൻ ഇതിനകം കണക്കാക്കിയിട്ടുണ്ട് ഇതിന് ഞാൻ പരിഹരിച്ചു തീർച്ചയായും എനിക്ക് വൈദ്യുതധാരകളും ഇവിടെ ഉൾപ്പെടുത്താം അതിനാൽ ഇത് I0 i ആണ് ഇത് I0 ആണ് അതിനാൽ എനിക്ക് തീർച്ചയായും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം രേഖീയമല്ലാത്ത സമവാക്യം വീണ്ടും പരിഹരിക്കുന്ന പ്രക്രിയയിലൂടെ കടന്നുപോകുക എന്നതാണ് എന്നാൽ പകരം ഞാൻ ചെയ്യുന്നത് ഒരു പുതിയ സർക്യൂട്ട് നിർമ്മിക്കുക എന്നതാണ് അതിൽ വർദ്ധിച്ച അളവുകൾ മാത്രം അടങ്ങിയിരിക്കുന്നു അതിനാൽ എനിക്ക് ഇവിടെ ഇൻക്രിമെന്റൽ VS ഉണ്ട് എനിക്ക് R ഉണ്ട് ഞാൻ ഒരു ലീനിയർ എലമെന്റിന്റെ ഇൻക്രിമെന്റൽ തുല്യതയിലേക്ക് വരും ഡയോഡിനെ ഞാൻ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ അതിന്റെ ഇൻക്രിമെന്റൽ തത്തുല്യമായി മാറ്റിസ്ഥാപിക്കുന്നു അതിനാൽ ഇൻക്രിമെന്റൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ഇക്വലന്റ് പൊതുവെ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് ഓർത്തിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് അതിനാൽ നിങ്ങൾ ഇന്ന് 1mA യുടെ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഒരു ഡയോഡിന്റെ ഇൻക്രിമെന്റൽ തുല്യത കണക്കാക്കുകയും നാളെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്പറേറ്റിംഗ് പോയിന്റ് കറന്റ് ഉണ്ടെങ്കിൽ 10mAs എന്ന് പറയട്ടെ ഇൻക്രിമെന്റൽ തുല്യമായത് വ്യത്യസ്തമായിരിക്കും അതിനാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് അതിനാൽ ഇത് ഇൻക്രിമെന്റൽ ഡയോഡ് വോൾട്ടേജ് ആയിരിക്കും ഇത് സർക്യൂട്ടിലെ ഇൻക്രിമെന്റൽ കറന്റ് ആയിരിക്കും ഇത് വളരെ എളുപ്പമാണ് അതിനാൽ നിങ്ങൾക്ക് ഇൻക്രിമെന്റൽ ഡയോഡ് വോൾട്ടേജ് വേണമെങ്കിൽ അത് വോൾട്ടേജ് ഡിവൈഡർ ഫോർമുലയിൽ നിന്ന് വരും നിങ്ങൾക്ക് ഇൻക്രിമെന്റൽ കറന്റ് വേണമെങ്കിൽ അത് ഒഹ്മ്'സ് ലോ ohm's law നിന്നും മറ്റും വരും തീർച്ചയായും ഇത് വളരെ ലളിതമായ സർക്യൂട്ട് ആണ് എന്നാൽ നിങ്ങളുടെ പക്കലുള്ള രേഖീയമല്ലാത്ത മൂലകങ്ങളുടെ എണ്ണം പരിഗണിക്കാതെ തന്നെ ഏത് സർക്യൂട്ടിനും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും അതിനാൽ ഓരോ നോൺ ലീനിയർ എലമെന്റും അതിന്റെ പ്രവർത്തന പോയിന്റിൽ അതിന്റെ ഇൻക്രിമെന്റൽ തത്തുല്യം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് പോയിന്റുകളുള്ള സർക്യൂട്ടിൽ രണ്ട് ഡയോഡുകൾ ഉണ്ടായിരിക്കാം അതായത് ഒന്നിന് 1mA ന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് കറന്റ് ഉണ്ടായിരിക്കാം മറ്റൊന്നിന് 10mA ഉണ്ടായിരിക്കാം അവയ്ക്ക് പൊതുവായി വ്യത്യസ്ത തുല്യമായ പ്രതിരോധം ഉണ്ടായിരിക്കും ഈ സർക്യൂട്ട് വർദ്ധനയുള്ള അളവുകളുമായി മാത്രം ബന്ധപ്പെട്ടതും അത് രേഖീയവുമാണ് സ്മാൾ സിഗ്നൽ ഇൻക്രിമെന്റൽ ഇക്വലന്റ് സർക്യൂട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതിനാൽ ചിലപ്പോൾ ഇത് സ്മാൾ സിഗ്നൽ ഇക്വലന്റ് ചിലപ്പോൾ ഇൻക്രെമെന്റൽ ഇക്വിവലെന്റ് എന്നിങ്ങനെ വിളിക്കുന്നു ഇത് ഓപ്പറേറ്റിംഗ് പോയിന്റിനെക്കുറിച്ചുള്ള ഇൻക്രിമെന്റുകൾക്ക് മാത്രമേ സാധുതയുള്ളൂവെന്നും ഇൻക്രിമെന്റുകൾ വേണ്ടത്ര ചെറുതാണെങ്കിൽ മാത്രമേ ഇത് സാധുതയുള്ളൂവെന്നും നിങ്ങൾ ഓർക്കണം നിങ്ങൾക്ക് ഉയർന്ന ഓർഡർ ടേമുകൾ അവഗണിക്കാം ഇപ്പോൾ വേണ്ടത്ര ചെറുതായത് നിങ്ങളുടെ പക്കലുള്ള രേഖീയമല്ലാത്ത മൂലകത്തെയും മറ്റും ആശ്രയിച്ചിരിക്കുന്നു എനിക്ക് നൽകാൻ കഴിയുന്ന ഒരേയൊരു നിർവചനം അത് വേണ്ടത്ര ചെറുതായിരിക്കണം അതിനാൽ രണ്ടാമത്തെ ഓർഡറും ഉയർന്ന ടേമുകളും നിസ്സാരമായിരിക്കണം കൂടാതെ നിങ്ങൾ നിസ്സാരമെന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് കൃത്യത വ്യക്തമാക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പരിഹാരത്തിന്റെ കൃത്യതയെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഇൻക്രിമെന്റിന്റെ വലുപ്പം നിയന്ത്രിക്കാം